സുപ്രഭാതം ബിനോദ് മിശ്ര എഴുതിയ സോഫ്റ്റ് സ്കില്ലുകളെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണ പരമ്പരയാണ് നിങ്ങൾ കേൾക്കുന്നത് ഈ പരമ്പരയിൽ നിലവിൽ നമ്മൾ വാക്കുകളോ അനൌപചാരിക ആശയവിനിമയമോ ഇല്ലാതെ ആശയവിനിമയം നടത്തുന്നു അനൌപചാരിക ആശയവിനിമയത്തിന്റെ പ്രാധാന്യം നമ്മൾ ഇതിനകം ചർച്ച ചെയ്യുകയും അടിവരയിടുകയും ചെയ്തു അല്ലെങ്കിൽ വളരെ വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നിരവധി സാഹചര്യങ്ങളിലും ജോലി ചെയ്യുമ്പോൾ ആശയവിനിമയം നടത്തുമ്പോൾ അനൌപചാരിക സൂചനകൾ ഉപയോഗിക്കേണ്ടിവരും ഇന്ന് ഈ സാഹചര്യത്തിൽ നമ്മൾ പ്രോക്സെമിക്സിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ പ്രോക്സിമിക്സ് എന്താണെന്നും അത് എത്രത്തോളം പ്രധാന പങ്കുവഹിക്കുന്നുവെന്നും നിങ്ങൾക്ക് ഒരു ജിജ്ഞാസ ഉണ്ടായിരിക്കാം അതിന്റെ വിവിധ രൂപങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് പ്രോക്സെമിക്സിന് കൂടുതൽ പരിഗണന നൽകേണ്ടത് നിങ്ങൾക്ക് ഒരു രഹസ്യം പങ്കിടേണ്ടിവരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അറിവില്ലാതെ വളരെ നിർണ്ണായകമായ ചില വിവരങ്ങൾ നൽകേണ്ടിവരുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഒരു വ്യക്തിയുമായി വളരെ അടുത്ത് ഇടപഴകുക എന്നതാണ് മറുവശത്ത് വ്യത്യസ്ത രീതികളിലും നിരവധി അവസരങ്ങളിലും ആശയവിനിമയം നടത്തുമ്പോൾ പ്രോക്സെമിക്സിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഇടം നിലനിർത്തുന്നുവെന്നും നിങ്ങൾ കണ്ടെത്തിയിരിക്കാം ആശയവിനിമയത്തിൽ സ്ഥലത്തിന് പ്രാധാന്യമുണ്ടോയെന്നും അത് ഉണ്ടെങ്കിൽ അത് എങ്ങനെ പ്രാധാന്യമർഹിക്കുന്നുവെന്നും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുള്ള സ്പേഷ്യൽ ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആശയവിനിമയത്തിൽ ഭൌതികമായ സ്ഥലത്തിൻറെ പഠനം പ്രോക്സെമിക്സ് എന്നാണ് അറിയപ്പെടുന്നത് പ്രോക്സിമിക്സ് എന്ന വാക്ക് സാമീപ്യത്തിൽ നിന്നാണ് വരുന്നത് അതിനർത്ഥം സ്ഥലത്തിന്റെ സാമീപ്യത്തെയാണ് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് അതുകൊണ്ടാണ് ആശയവിനിമയത്തിൽ പ്രകടമാകുന്ന പെരുമാറ്റ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രോക്സിമിക്സിനെ നന്നായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ പലപ്പോഴും കണ്ടെത്തുന്നത് അതിനാലാണ് നമ്മൾ സ്പേഷ്യൽ ബന്ധത്തെ ആശയവിനിമയം എന്ന് വിളിക്കുന്നത് അതിനാൽ പ്രോക്സെമിക്സ് നമ്മുടെ പെരുമാറ്റ മാനദണ്ഡവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾ മൃഗങ്ങളെ നോക്കുകയാണെങ്കിൽ അവയിൽ ചിലത് കൂട്ടിലാണെന്നും അവയ്ക്ക് പരിമിതമായ ഇടമുണ്ടെന്നും അവർ നടന്നാലും അല്ലെങ്കിൽ ചലനമുണ്ടായാലും അവരുടെ ചലനങ്ങൾ പരിമിതപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ ഒരിക്കൽ അവരെ സ്വതന്ത്രരാക്കിയാൽ അവര്ക്ക് സമാധാനം കൈവരുന്നതായി അനുഭവപ്പെടും അതുപോലെ മനുഷ്യനും മൃഗങ്ങൾക്ക് വായു കുമിള ഉള്ളതുപോലെ മനുഷ്യർക്കും വായു കുമിളയുണ്ട് നമുക്കെല്ലാവർക്കും യഥാർത്ഥത്തിൽ കുറച്ച് സ്ഥലം ആവശ്യമാണ് സ്ഥലത്തിന് ഒരു അർത്ഥമുണ്ട് ഇത് ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യത്യാസപ്പെടുന്നു അമ്മയും കുട്ടിയും തമ്മിലുള്ള ഇടം വളരെ കുറവാണെന്ന് നിങ്ങൾ കണ്ടെത്തി വാക്കുകളുടെ കൈമാറ്റം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അമ്മയും കുട്ടിയും തമ്മിലുള്ള ആശയവിനിമയം നമ്മൾ കണ്ടെത്തുന്നു പക്ഷേ അവർ പരസ്പരം സൂചനകൾ മനസ്സിലാക്കുന്നു മാത്രമല്ല അടുപ്പത്തിന്റെ കാര്യത്തിലും തമാശയുടെ കാര്യത്തിലും വാത്സല്യത്തിന്റെ കാര്യത്തിൽ കോപത്തിന്റെ കാര്യത്തിലും അതിനാൽ നിരവധി അവസരങ്ങളിൽ ആശയവിനിമയം നടത്തുമ്പോൾ ഭൌതിക സ്ഥലത്തെക്കുറിച്ചുള്ള പഠനം വ്യക്തിപരമായ ബന്ധങ്ങൾക്കോ ശാരീരികമോ ഔദ്യോഗിക ആശയവിനിമയമോ ആയിരിക്കാം സ്ഥലം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു പക്ഷേ ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റൊന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം സ്ഥലം ഒരു സംസ്കാരത്തിൽ നിന്ന് വ്യത്യാസപ്പെടുന്നു മറ്റൊന്ന് പ്രോക്സെമിക്സ് ഊഷ്മളത പ്രതിഫലിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്വാതന്ത്ര്യത്തിന്റെ അളവ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സൌഹൃദം ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റൊന്ന് സമാധാനം എന്നിവ പോലുള്ള മറ്റ് വികാരങ്ങളെയും ഇത് പ്രതിഫലിപ്പിക്കുന്നു അതിനാൽ അതിർവരമ്പുകളെ എല്ലായ്പ്പോഴും 4 വിഭാഗങ്ങളായി വിഭജിക്കാൻ കഴിയും ഓരോ വ്യക്തിക്കും സ്ഥലബോധം പ്രദേശബോധം പരിസരബോധം എന്നിവയുണ്ട് അതിനാൽ നമ്മളുടെ ബന്ധത്തെ ആശ്രയിച്ച് സോണുകൾ മാറ്റിവയ്ക്കുന്നു സോണുകൾ വ്യത്യാസപ്പെടുന്നു ഈ വിഭാഗത്തിലെ ആദ്യത്തേത് ഒരു അടുപ്പമുള്ള മേഖലയാണ് ഇപ്പോൾ നമ്മൾ സോണുകളെക്കുറിച്ച് സംസാരിക്കാൻ പോകുമ്പോൾ സമീപസ്ഥതയുടെയോ വിദൂരതയുടെയോ അളവ് ഉറപ്പാക്കണം ആദ്യത്തെ സോൺ ഒരു അടുപ്പമുള്ള മേഖലയാണ് അവിടെ അതിർവരമ്പുകളെക്കുറിച്ച് സംസാരിക്കുന്നു നമുക്ക് വിവിധ ബഹിരാകാശ മേഖലകളെക്കുറിച്ച് സംസാരിക്കാം നേരത്തെ പറഞ്ഞതുപോലെ ഓരോ മനുഷ്യനും മൃഗങ്ങളെപ്പോലെയാണ് അവർക്ക് സ്ഥലം ആവശ്യമാണ് ആർക്കാണ് ശ്വസിക്കാനുള്ള ഇടം വേണ്ടാത്തത് നിങ്ങളുടെ ഇടം തടസ്സപ്പെട്ടുവെന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിരവധി സാഹചര്യങ്ങൾ നിങ്ങൾ കണ്ടിരിക്കാം ചിലപ്പോൾ അത് പോലും ലംഘിക്കപ്പെടുന്നു അതിനാലാണ് ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വ്യത്യാസപ്പെടുന്നത് എന്നാൽ ചില വഴികളുണ്ട് നമുക്ക് ഇടത്തെ പറ്റി പഠിക്കാൻ കഴിയും അതിനാലാണ് ഈ അതിർവരമ്പുകളെ 4 ആയി തിരിക്കാം അവയിൽ ആദ്യത്തേത് അടുപ്പമുള്ള സ്ഥലമാണ് കൂടാതെ 18 ഇഞ്ച് വരെ ശാരീരിക സ്പർശനം അനുവദനീയമാണെന്ന് ഈ അടുപ്പമുള്ള സ്ഥലം സൂചിപ്പിക്കുന്നു ഇപ്പോൾ ചോദ്യം നമ്മൾ അടുപ്പമുള്ള മേഖലയിലാണോ അതോ മറ്റേതെങ്കിലും മേഖലയിലാണോ എന്ന് എങ്ങനെ അറിയണം എന്നതാണ് ഈ പദം തന്നെ സൂചിപ്പിക്കുന്ന ഈ അടുപ്പമുള്ള മേഖല നിങ്ങൾ കണ്ടെത്തും അടുപ്പത്തെക്കുറിച്ച് സംസാരിക്കുന്നു അതിനാൽ പരസ്പരം വളരെ അടുപ്പമുള്ള ആളുകൾ കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മളുമായി വളരെ അടുപ്പമുള്ള മറ്റ് ആളുകൾ അതുപോലെ തന്നെ നമ്മളുടെ അടുപ്പമുള്ള മേഖലകളിലേക്ക് പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ അവർക്കുള്ളൂ നമ്മളുടെ ബന്ധം പോലെ വ്യക്തിഗത മേഖലയായി മറ്റ് സോണുകളുണ്ട് അത് ഒരു വിദൂര ബന്ധമാണോ അല്ലെങ്കിൽ ഇത് ഒരു അടുത്ത ബന്ധമാണോ അതിർവരമ്പുകളിൽ ഒരു വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തും അതിനാൽ വ്യക്തിഗത മേഖലയിൽ ഫിസിക്കൽ ടച്ച് അനുവദനീയമാണ് അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ 18 ഇഞ്ചിൽ നിന്ന് 4 അടിയിലേക്ക് വർദ്ധിക്കുന്നു തുടർന്ന് നമുക്ക് സോഷ്യൽ സോൺ ഉണ്ട് അവിടെ സ്പേസ് അകലം 4 അടി മുതൽ 12 അടി വരെ ആയിരിക്കും അവസാനത്തേത് യഥാർത്ഥത്തിൽ സ്ഥലത്തെ സൂചിപ്പിക്കുന്ന പൊതുമേഖലയാണ് 12 അടി മുതൽ 30 അടി വരെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദൂരം ഇപ്പോൾ ഈ സോണുകളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് നിരവധി ഉദാഹരണങ്ങളുണ്ട് മെഹ്റാബിയൻ പറയുന്നതുപോലെ നരവംശശാസ്ത്രജ്ഞർക്ക് വ്യത്യസ്ത നിരീക്ഷണങ്ങൾ ഉണ്ട് ശാന്തമായ ഭാവത്തിലൂടെയും ഇടപഴകുന്നതിനുള്ള വഴികളിലൂടെയും നില പ്രകടമാകുന്നു ഇപ്പോൾ നിങ്ങളുടെ ഇടം പരിപാലിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനം നിലനിർത്തുന്നുവെന്ന് കണ്ടെത്തും നിങ്ങൾ ഒരു സ്ഥാപനത്തിലെ ജോലിക്കാരനാണെങ്കിൽ വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത ഇടങ്ങളുള്ള നിരവധി സംഭവങ്ങൾ നിങ്ങൾ കാണും സൂക്ഷിച്ചിരിക്കുന്ന ഫർണിച്ചറുകൾപോലും ഒരു വ്യക്തിയുടെ അവസ്ഥയെക്കുറിച്ച് ധാരാളം പറയുന്നു മിക്ക ഓർഗനൈസേഷനുകളിലും മേലധികാരിക്ക് എല്ലായ്പ്പോഴും വിശാലമായ ഒരു മുറി ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും അതേസമയം മറ്റ് ജീവനക്കാർക്ക് ഓർഗനൈസേഷനിലെ അവരുടെ നില അനുസരിച്ച് അവരുടെ സ്ഥലവും വ്യത്യാസപ്പെടുന്നു പൊതു ജീവനക്കാർക്ക് താരതമ്യേന ചെറിയ ക്യാബിനുകൾ ഉണ്ട് അത് ഓർഗനൈസേഷനിൽ അവരുടെ സ്ഥലത്തെയും അവരുടെ പ്രാധാന്യത്തെയും സൂചിപ്പിക്കുന്നു യുഎസിലെ ജോലിസ്ഥലത്തെ മിക്ക അനൌപചാരിക ആശയവിനിമയം അധികാരത്തെ ശക്തിപ്പെടുത്തുന്നു അതിനാൽ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ നിങ്ങൾ കൈവശമുള്ള ഇടം അധികാരം ബന്ധപ്പെട്ടതാണ് അത് നിങ്ങളുടെ നിയന്ത്രണത്തെക്കുറിച്ചും നിങ്ങളുടെ ശക്തിയെക്കുറിച്ചും നിങ്ങളുടെ ആധിപത്യത്തെക്കുറിച്ചും ധാരാളം പറയുന്നു അതുകൊണ്ടാണ് യുഎസിലെ പല ഓർഗനൈസേഷനുകളിലും മുതലാളിക്ക് കോർനർ സ്പേസ് ഉണ്ടായിരിക്കുന്നതിനാൽ അയാൾക്ക് മറ്റെല്ലാ ജീവനക്കാരെയും കാണാൻ കഴിയും നിങ്ങളുടെ രാജ്യത്ത് പോലും നിങ്ങൾ ആളുകളെ ഉയർന്ന സ്ഥാനങ്ങളിലും വിശിഷ്ട പോസ്റ്റുകളിലും കണ്ടെത്തും അവർ കൂടുതൽ ശക്തി ആസ്വദിക്കുന്നു ഔദ്യോഗിക നിബന്ധനകളിലോ അവർക്ക് താമസസൌകര്യമോ മറ്റ് കാര്യങ്ങളോ നൽകുന്നതിലൂടെയോ അവർ കൂടുതൽ ഇടം ആസ്വദിക്കുന്ന രീതിയെ പ്രതിഫലിപ്പിക്കുന്നു ഈ സന്ദർഭത്തിൽ സ്പേസ് ശക്തിയെ സൂചിപ്പിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞതുപോലെ അത് സംസ്കാരത്തിൽ നിന്ന് സംസ്കാരത്തിലേക്ക് വ്യത്യാസപ്പെടുന്നു ഒരു സംസ്കാരത്തിൽ അനുവദനീയമായത് മറ്റൊരു സംസ്കാരത്തിലെ ഒരു അനുബന്ധമായിരിക്കാം ഇടം ഒരുപാട് അർത്ഥമാക്കുന്നതിന്റെ ഒരു ഉദാഹരണം ഞാൻ തരാം ഒരു ജാപ്പനീസ് സ്ഥാപനം വിശിഷ്ടാതിഥിയായി ക്ഷണിക്കപ്പെട്ട ഒരു അമേരിക്കക്കാരൻ ഇങ്ങനെ നിരീക്ഷിച്ചു അദ്ദേഹത്തെ വേദിയിലേക്ക് കൊണ്ടുവരാൻ ഒരു കാർ അയച്ചപ്പോൾ അദ്ദേഹത്തെ അകമ്പടി സേവിക്കാൻ 2 പേരെ അയച്ചതായി കണ്ടെത്തി വിശിഷ്ടാതിഥിയെ പിൻസീറ്റിൽ ഇരുത്തിയപ്പോൾ 2 പേരെ ഡ്രൈവറുടെ അരികിൽ മുൻ സീറ്റിൽ ഇരുത്തി യുഎസിന്റെ വിശിഷ്ടാതിഥിക്ക് അസുഖം അനുഭവപ്പെട്ടു യാത്രയിലുടനീളം ഏകാന്തതയിൽ ഇരിക്കുന്നത് അദ്ദേഹത്തിൽ ജാള്യത ഉളവാക്കി എന്തുകൊണ്ടാണ് തന്നെ തനിച്ചാക്കിയതെന്ന് മനസിലാക്കാൻ കഴിഞ്ഞില്ല ധാരാളം സ്ഥലം ലഭ്യമായിരുന്നിട്ടും ഡ്രൈവറുടെ അരികിൽ മുൻ സീറ്റിൽ ഇരിക്കുന്നു രണ്ടുപേർ മറ്റൊരു അവസരത്തിൽ അതേ വിശിഷ്ടാതിഥിയെ വിളിച്ചപ്പോൾ അദ്ദേഹത്തെ അകമ്പടി സേവിക്കാൻ മൂന്നു പേരുണ്ടായിരുന്നു വിശിഷ്ടാതിഥിക്ക് തോന്നിയത് മൂന്നുപേർ ആയതിനാൽ ആരെങ്കിലും തന്റെ അരികിൽ ഇരിക്കേണ്ടിവരുമെന്ന് പക്ഷേ അത് സംഭവിച്ചില്ല ഇത്തവണ വീണ്ടും 3 പേരും ഡ്രൈവറുടെ അരികിലെ മുൻ സീറ്റിൽ ഇരുന്നു യുഎസ് വ്യക്തിക്ക് വീണ്ടും അസുഖം തോന്നുന്നു തനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് കരുതി തന്റെ ശരീര ദുർഗന്ധം അല്ലെങ്കിൽ മണം എന്തോ ആയിരിക്കാം പക്ഷേ ഇത് ഒരു ചോദ്യമായിരുന്നില്ല തുടർന്ന് അദ്ദേഹം തന്റെ ഇംഗ്ലീഷ് വിദ്യാർത്ഥികളുമായും ബ്രിട്ടീഷ് വിദ്യാർത്ഥികളുമായും ഒരു പാർട്ടിയിൽ പങ്കെടുക്കുമ്പോൾ വൈകി അത് മനസ്സിലാക്കി അവരും ക്ലസ്റ്ററിന്റെ അങ്ങേ അറ്റത്ത് ഇരുന്നു ഈ വ്യക്തി ഇരിക്കുമ്പോഴോ ഒറ്റയ്ക്ക് സ്ഥലം കൈവശപ്പെടുത്തുമ്പോഴോ അയാൾ അറിയാൻ ശ്രമിക്കുന്നതിനിടയിൽ അവരിൽ ഒരാൾ മറുപടി പറഞ്ഞു നിങ്ങളും ഞാനും ഉറ്റസുഹൃത്തുക്കളാണ് ജാപ്പനീസ് അവരുടെ അതിഥികൾക്ക് കൂടുതൽ ഇടം നൽകുന്നുവെന്നതാണ് ഇതിന്റെ അർത്ഥം അതിനാൽ ഒരു അകലം വ്യത്യസ്ത ആളുകൾ വ്യത്യസ്തമായി വ്യാഖ്യാനിച്ചേക്കാം ഇപ്പോൾ ഈ 4 അതിർവരമ്പുകളെ എങ്ങനെ വ്യത്യാസപ്പെടുന്നുവെന്ന് മനസിലാക്കാൻ ശ്രമിക്കാം പല യൂറോപ്യന്മാരും അവർ 15 മുതൽ 25 സെന്റീമീറ്റർ വരെ അതിർവരമ്പുകൾ നിലനിർത്തുന്നു അവരുടെ അടുപ്പമുള്ള മേഖലകൾ നിലനിർത്തുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിദൂര മേഖലകൾ ബന്ധത്തെ ആശ്രയിച്ച് വ്യത്യാസപ്പെടുന്നു ഇപ്പോൾ കഴിയുന്ന അംഗങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നുവെങ്കിൽ ഇടം ആധിപത്യത്തെയും ശക്തിയെയും സൂചിപ്പിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം അതിനാലാണ് നമ്മൾ അടുപ്പമുള്ള മേഖലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് കുടുംബാംഗങ്ങൾക്കും അടുത്ത ബന്ധുക്കൾക്കുമായി മാത്രം നീക്കിവച്ചിരിക്കുന്നത് ഒരു അപരിചിതനോ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിലെ ഒരു വ്യക്തി തങ്ങൾക്ക് അടുപ്പമുള്ള മേഖലയിൽ ഇടപെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഭീഷണി നേരിടുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ഒരു ജോലിസ്ഥലത്തെ ജോലിക്കാരനെങ്കിൽ നിങ്ങളുടെ ബോസുമായി ഇടപെടുമ്പോഴും നിങ്ങൾക്ക് ഒരു പ്രത്യേക പ്ലെയ്സ്മെന്റ് ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തും നിങ്ങൾ ബോസുമായി വളരെ അടുത്ത് പോയാൽ അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് ഭീഷണി തോന്നുന്നു ഇപ്പോൾ വ്യക്തിഗത മേഖലയിലേക്ക് വരുമ്പോൾ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും സമപ്രായക്കാർക്കും മാത്രമേ നമ്മളുടെ സ്വകാര്യ മേഖലകളിൽ പ്രവേശിക്കാൻ കഴിയൂ എന്ന് നമ്മൾ കണ്ടെത്തി യഥാർത്ഥത്തിൽ വ്യക്തിപരമായ മേഖലകൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ള ആളുകൾക്ക് ഇടപെടാൻ കഴിയില്ല അല്ലെങ്കിൽ ബന്ധം വളരെ അടുത്തുവരുന്നതുവരെ അല്ലെങ്കിൽ നമ്മൾ പരസ്പരം ആശയവിനിമയം നടത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ പരസ്പരം രഹസ്യങ്ങൾ കാണുന്നതുവരെയോ അല്ലാതെ നമ്മളുടെ അടുപ്പമുള്ള മേഖലകളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല അതിനാൽ ഒരു സോൺ അനുവദിച്ച വ്യക്തിക്ക് മറ്റ് സോൺ ഷെയറിൽ ഇടപെടാൻ കഴിയില്ല അടുത്തത് അപരിചിതർ ഇടയ്ക്കിടെ സന്ദർശകരായ പ്ലംബർമാർ ഇലക്ട്രീഷ്യൻമാർ മിൽക്ക്മാൻ തുടങ്ങിയവർ പങ്കെടുക്കുന്ന സാമൂഹിക മേഖലയാണ് അവ സാമൂഹിക മേഖലകളുടെ ഭാഗമാകാൻ മാത്രമേ കഴിയൂ അവർക്ക് അവകാശമില്ല മാത്രമല്ല വീട്ടിലോ ഓഫീസിലോ നിങ്ങൾ പലപ്പോഴും കണ്ടെത്തും ഈ ആളുകളെ ഒരു നിശ്ചിത ഇടം വരെ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ അവരെ വളരെ അടുത്തേക്ക് പോകാൻ അനുവദിക്കാനാവില്ല അതുകൊണ്ടാണ് ആരെങ്കിലും ഒരു ഓർഗനൈസേഷന്റെ തലവനെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ഉദ്ദേശിച്ച സ്ഥലത്ത് കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വരുന്നത് മുതലാളിയെ അറിയിക്കുകയും അത് എപ്പോൾ ഏത് സ്ഥലത്ത് മുതലാളിയുടെ വിവേചനാധികാരത്തിന് അനുസൃതമാവുകയും ചെയ്യുന്നതുവരെ അയാൾ മറ്റൊരാളെ കാണും അടുത്തത് പൊതുമേഖലയാണ് അത് യഥാർത്ഥത്തിൽ വലിയ ദൂരത്തേക്കാണ് ഈ മേഖലയിൽ പ്രാസംഗികരും നേതാക്കളും പെടും നിങ്ങൾ ഒരു കോൺഫറൻസിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പലപ്പോഴും കണ്ടെത്തും പ്രധാന പ്രാസംഗികൻ ഒരു പ്രത്യേക സ്ഥലത്താണെന്നും മറ്റ് ആളുകളും അവർ തമ്മിലുള്ള വ്യത്യാസവും വളരെ വലുതാണെന്നും നിങ്ങൾ നിരീക്ഷിക്കും ഇപ്പോൾ നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ നമ്മൾ ഒരു പൊതുമേഖലയിലായിരിക്കുമ്പോഴോ പൊതുജനങ്ങളോട് ഒരു പ്രസംഗം നടത്തുമ്പോഴോ ഫീഡ്ബാക്ക് മനസ്സിലാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ സ്ഥലവും സാംസ്കാരികമായി നിയന്ത്രിക്കപ്പെടുന്നതിനാൽ വ്യത്യസ്ത സംസ്കാരങ്ങൾക്ക് വ്യത്യസ്ത സ്ഥല അർത്ഥമുണ്ട് ഇതുവഴി ലോകത്തെ 2 സന്ദർഭ സംസ്കാരങ്ങളായി തിരിക്കാം ആദ്യത്തേത് വടക്കേ അമേരിക്ക ജർമ്മനി ഇംഗ്ലണ്ട് ഫ്രഞ്ച് ഇറ്റലി സ്കാൻഡിനേവിയ തുടങ്ങിയ രാജ്യങ്ങൾ വരുന്ന ലോ കോണ്ടെക്സ്റ് സംസ്കാരമാണ് അതേസമയം ഹൈ കോണ്ടെക്സ്റ് സംസ്കാരങ്ങളിൽ ജപ്പാൻ ചൈന അറബ് ഗ്രീസ് മെക്സിക്കോ സ്പെയിൻ എന്നിവ ഉൾപ്പെടുന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് വ്യത്യാസം രണ്ട് സംസ്കാര മേഖലകൾക്കിടയിൽ ഇടം എങ്ങനെ പ്രാധാന്യമർഹിക്കുന്നു താഴ്ന്ന സംസ്കാരത്തിൽപെട്ട ആളുകൾ എഴുതിയവയിൽ എല്ലാം വിശ്വസിക്കുന്നു അനൌപചാരിക സൂചകങ്ങൾക്ക് അവ വലിയ പ്രാധാന്യം നൽകുന്നില്ല ഉയർന്ന സന്ദർഭ സംസ്കാരമുള്ള ആളുകൾ അനൌപചാരിക സൂചകങ്ങളിൽ നിന്നും അർത്ഥം നേടാൻ ശ്രമിക്കുന്നു ഇക്കാര്യത്തിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട് യുഎസിലെ ആളുകൾ ആശയവിനിമയം നടത്തുമ്പോൾ അവർ യഥാർത്ഥ ഇമെയിലുകൾ എഴുതാൻ പോകുന്നു അതേസമയം ജപ്പാൻ പോലുള്ള ഉയർന്ന സന്ദർഭ സംസ്കാരത്തിൽ നിന്നുള്ള ആളുകൾ ചെറിയ സന്ദേശങ്ങൾ എഴുതുന്നതിൽ അവർ വിശ്വസിക്കുന്നു അതിനാൽ ഒരു ആശയവിനിമയം നടക്കുമ്പോൾ അമേരിക്കക്കാർക്ക് ഫ്രഞ്ച് ജനത വിവരങ്ങൾ തടഞ്ഞുവയ്ക്കുന്നതായി തോന്നുമെങ്കിലും ഫ്രഞ്ച് ജനത അമേരിക്കക്കാരെ അമിതമായി ആധിപത്യം പുലർത്തുന്നവരായി കണക്കാക്കുകയും കൂടുതൽ സംസാരിക്കാൻ ശ്രമിക്കുമെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു അമേരിക്കക്കാർക്ക് കൂടുതൽ ഇടം ആവശ്യമാണെന്ന് നമ്മൾ പലപ്പോഴും കണ്ടെത്തിയിട്ടുണ്ട് അതിനാലാണ് ഒരു അമേരിക്കക്കാരനും മറ്റുള്ളവരും തമ്മിൽ ആശയവിനിമയം നടക്കുമ്പോൾ മറ്റ് ആളുകളെ പലപ്പോഴും അമേരിക്കയുടെ ഇടങ്ങൾ ലംഘിക്കുന്നതായി കണക്കാക്കുന്നത് അതേസമയം മറ്റുള്ളവരെ ലജ്ജിപ്പിക്കുന്നതായും അവരുടെ ഇടങ്ങളിൽ ഇടപെടുന്നതായും നമുക്ക് കാണാൻ കഴിയും മറ്റൊരു ഉദാഹരണം ഒരേ ലിംഗത്തിലുള്ള അറബികൾ വടക്കേ അമേരിക്കക്കാരേക്കാൾ വളരെ അടുത്ത് നിൽക്കുന്നു ഏഷ്യക്കാർ പ്രത്യേകിച്ച് ഇന്ത്യക്കാർ അവർ പലപ്പോഴും വളരെ അടുത്ത് നിൽക്കുന്നു ഇത് മറ്റ് സംസ്കാരങ്ങളിലെ ആളുകളെ ലജ്ജിപ്പിച്ചേക്കാം ഈ സാഹചര്യത്തിൽ ഒരു ഡെൻമാർക്ക് ദമ്പതികൾ ഒരു അമേരിക്കൻ ക്ലബിൽ ചേർന്നതിന്റെ ഒരു ഉദാഹരണം ഉണ്ട് അവർക്ക് അമേരിക്കക്കാരുടെ ഇടം പരിപാലനത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു അതിനാൽ ഡെൻമാർക്ക് ദമ്പതികൾ അമേരിക്കയുടെ ഇടം ലംഘിക്കുന്നതായി കണ്ടെത്തി ഇടം ലംഘിക്കപ്പെട്ട നിരവധി സംഭവങ്ങളുണ്ട് ചിലപ്പോൾ ഇത് വ്യത്യസ്ത രീതികളിലും കലാശിച്ചു ഉദാഹരണത്തിന് നമ്മുടെ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് റാലിയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ചില ആളുകൾ ഇടം ലംഘിക്കുകയും സ്പീക്കറുടെ അടുത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യും അത് യഥാർത്ഥത്തിൽ ഒരു ചരിത്രത്തിന് പോലും ഒരിക്കലും മറക്കാൻ കഴിയാത്ത തരത്തിലുള്ള സംഭവം ആകും അതിനാൽ നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ നമ്മുടെ സ്വന്തം സ്ഥലത്തിന്റെ പരിമിതികൾ മനസിലാക്കുകയും മറ്റുള്ളവരുടെ ഇടങ്ങൾ ഇടപെടുന്നില്ലെന്ന് കണക്കാക്കുകയും ചെയ്യേണ്ടതാണ് സാംസ്കാരികമായി സുഖപ്രദമായ ദൂരങ്ങളിലേക്ക് നമ്മൾ ക്രമീകരിക്കുമ്പോൾ മിക്കപ്പോഴും ആശയക്കുഴപ്പം ഉണ്ടാകുന്നു നിരവധി പണ്ഡിതന്മാരും അവരിൽ ഒരാളും നടത്തിയ നിരവധി നിരീക്ഷണങ്ങൾ ഉണ്ട് ഒരു അമേരിക്കക്കാരനും ജാപ്പനീസും ആയിരിക്കുമ്പോൾ ജാപ്പനീസ് വളരെ ആളുകളായതിനാൽ ജപ്പാനീസ് എല്ലായ്പ്പോഴും അമേരിക്കനുമായി വളരെ അടുത്ത് പോകാൻ ആഗ്രഹിക്കുന്നുവെന്നും അമേരിക്കക്കാർ എല്ലായ്പ്പോഴും പിൻവാങ്ങാനും പരസ്പരം സുഖപ്രദമായ ദൂരം ക്രമീകരിക്കാൻ അവർ ശ്രമിക്കുന്നതായി ആളുകൾക്ക് പ്രത്യക്ഷപ്പെട്ടു സ്ഥലത്തിന്റെ കാര്യത്തിൽ അവബോധത്തിന്റെ അഭാവം തെറ്റിദ്ധാരണയിലേക്ക് നയിക്കുകയും ചില സമയങ്ങളിൽ ഇത് ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കുകയും തെറ്റായ ആശയവിനിമയം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇടം വളരെ പ്രധാനമാണെങ്കിലും ആശയവിനിമയത്തിന്റെ കാര്യത്തിൽ അറിവും സമയ പഠനവും ഒരുപോലെ പ്രധാനമാണ് പല രാജ്യങ്ങളിലും ആളുകൾക്ക് വളരെ കർക്കശമായ അല്ലെങ്കിൽ കർശനമായ ധാരണകളുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തും എന്നാൽ ചില സംസ്കാരങ്ങളിൽ ആളുകൾ മറ്റുള്ളവരെപ്പോലെ ഗൌരവമായി എടുക്കുന്നില്ലെന്നും ഇത് ക്രോണമിക്സിന് കീഴിൽ നമ്മൾ പഠിക്കുന്നുവെന്നും കണ്ടെത്തി കാലത്തെക്കുറിച്ചുള്ള പഠനമാണ് ക്രോണമിക്സ് നിങ്ങളിൽ ഭൂരിഭാഗവും പ്രൊഫഷണലുകൾ ആയതിനാൽ ഒരു പ്രൊഫഷണൽ ലോകത്തിലെ സമയത്തിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് സമയം പ്രൊഫഷണൽ ലോകത്തിലെ ഒരു ചരക്കാണ് സമയം ഒരു വ്യക്തിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നു അത് മറ്റുള്ളവരോടുള്ള ഒരു വ്യക്തിയുടെ മനോഭാവത്തെയും പ്രതിഫലിപ്പിക്കുന്നു അതേ സമയം ഒരു വ്യക്തിയുടെ മുൻഗണനയെ സൂചിപ്പിക്കുന്നു അതുകൊണ്ടാണ് പല രാജ്യങ്ങളും പല സംസ്കാരങ്ങളും ആളുകൾ ഒരു ചരക്കാണെന്ന് ഞാൻ പറഞ്ഞതുപോലെ കൃത്യസമയത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് അത് സമ്പന്നമായ ലാഭവിഹിതം നൽകുന്നു നിങ്ങൾ ഒരു പ്രൊഫഷണൽ ലോകത്താണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയ പരിധിയും നൽകിയിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ മറ്റൊന്നിലൂടെ സമയബന്ധിതമായി പ്രതികരിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങളോട് മോശമായി പെരുമാറുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ നെഗറ്റീവ് സ്വഭാവവിശേഷങ്ങൾ കാണിക്കുന്നു നിങ്ങൾ കൃത്യമായ സമയപരിധി പാലിക്കാത്തതിനാൽ ചില സമയങ്ങളിൽ നിങ്ങൾ ആത്മാർത്ഥതയില്ലാത്തവരായി കണക്കാക്കാം വിവിധ സംസ്കാരങ്ങളിൽ അത് വ്യത്യാസപ്പെടുന്നു ഞാൻ പറഞ്ഞതുപോലെ ആസൂത്രണം ചെയ്യാൻ സമയം സഹായിക്കുന്നുവെന്ന് നിങ്ങൾ കണ്ടെത്തും നിങ്ങൾ ഒരു പ്രൊഫഷണലാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ശരിയായി സമയം കണ്ടെത്തണം നിരവധി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ മെക്സിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ മീറ്റിംഗുകൾ യഥാസമയം ആരംഭിക്കുന്നില്ല ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഒരുപാട് രസമുണ്ട് ധാരാളം ഗോസിപ്പുകൾ ഉണ്ട് തുടർന്ന് അവർ മീറ്റിംഗ് ആരംഭിക്കുന്നു പക്ഷേ യുകെ പോലുള്ള രാജ്യങ്ങളിൽ നിങ്ങൾ കൃത്യസമയത്ത് ആയിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബഹുമാനം ലഭിക്കുന്നു നമ്മുടെ സ്വന്തം രാജ്യം ആയ ഇന്ത്യയിൽ നമ്മൾ സമയത്തെക്കുറിച്ച് വളരെയധികം സംസാരിക്കാറുണ്ടെങ്കിലും മിക്കപ്പോഴും നമ്മൾ സമയം പാലിക്കാറില്ല അതിനാലാണ് പ്രശ്നം ഉണ്ടാകുന്നത്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 പ്രശസ്ത മനശാസ്ത്രജ്ഞരിൽ ഒരാളും നരവംശശാസ്ത്രജ്ഞനുമായ റോബർട്ട് ഇ ഹാൾ പറയുന്നത് "Time talks and space speaks" എന്നാണ് നിങ്ങൾ ഒരു പ്രസംഗം നടത്താൻ പോവുകയാണെങ്കിൽ അത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ ആണോ എന്ന് നിങ്ങൾ പരിശോധിക്കും ഉദാഹരണത്തിന് നിങ്ങൾ 20 മിനിറ്റ് പ്രസംഗം നടത്താൻ പോകുകയാണെങ്കിൽ നിങ്ങൾ അത് എങ്ങനെ വിഭജിക്കാൻ പോകുന്നുവെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം അങ്ങനെ നിങ്ങളുടെ സംസാരം കൃത്യസമയത്ത് അവസാനിക്കും ഒരു ആമുഖം 20 മിനിറ്റ് ദൈർഘ്യമുള്ള അവതരണത്തിൽ ഇത് ദൈർഘ്യമേറിയതാണെങ്കിൽ ഇത് നിങ്ങളുടെ സമയം പാഴാക്കുന്നു അതിനാൽ ശ്രദ്ധാപൂർവ്വം സംസാരിക്കുന്നവർ ശ്രദ്ധാപൂർവ്വം ആശയവിനിമയം നടത്തുന്നവർ സന്ദേശത്തിന്റെ ശരിയായ സമയവും നിങ്ങളുടെ അവതരണമോ സംഭാഷണമോ സമയബന്ധിതമായി അറിയുകയും തീരുമാനിക്കുകയും ചെയ്യുന്നു ആമുഖത്തിന് നിങ്ങൾ കൂടുതൽ സമയം അനുവദിക്കുകയാണെങ്കിൽ അവതരണത്തിന് നിങ്ങൾക്ക് കുറച്ച് സമയമേയുള്ളൂ കൂടാതെ വിജയകരമായ അവതരണത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് അതിനാൽ തുടക്കവും വികാസവും നിങ്ങളുടെ അവതരണത്തിന്റെ അവസാനവും വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു അതിനാൽ നിങ്ങൾ സമയം നിയന്ത്രിക്കുന്ന രീതി നിങ്ങളുടെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുകയും വിജയകരമായ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ വിജയകരമായ സംരംഭകനാകാൻ സഹായിക്കുകയും ചെയ്യുന്നു നിരവധി രാജ്യങ്ങളിൽ സങ്കൽപ്പങ്ങളുണ്ടെങ്കിലും ഓരോ വ്യക്തിയും സ്വന്തം മുൻഗണന അനുസരിച്ച് സമയം ഉപയോഗിക്കുന്നു ഒരു ഓർഗനൈസേഷനിലെ ഒരു പ്രധാന വ്യക്തിയെ കണ്ടുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ മുൻകൂട്ടി സമയം തേടണം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എത്ര സമയം നൽകണമെന്ന് അവർ തീരുമാനിക്കും മറ്റുള്ളവർക്ക് അവർ സമയം നൽകുന്ന രീതി അത് മറ്റ് വ്യക്തിക്ക് അവർ നൽകുന്ന പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ അവർ യഥാർത്ഥത്തിൽ ചില മുൻഗണനകൾ നൽകുകയും അവരുടെ സമയത്തിന് മുൻഗണന നൽകുകയും ചെയ്യുന്നു എന്നാൽ സമയബന്ധിതമായ സമയോചിതമായ അവതരണം സമയബന്ധിതമായ സഹായം സമയബന്ധിതമായ ആസൂത്രണം സമയബന്ധിതമായ ഒരു പ്രസംഗം എന്നിവ നല്ല ഫലം നൽകുന്നു പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു പ്രൊഫഷണൽ ലോകത്തിലെ മിക്ക സാഹചര്യങ്ങളിലും പ്രോക്സെമിക്സ് മാത്രമല്ല ക്രോണമിക്സും പ്രധാനമാണ് നിങ്ങളുടെ സമയം എങ്ങനെ വിഭജിക്കാൻ പോകുന്നു എന്നത് നിങ്ങൾ നിശ്ചയിക്കും നിങ്ങളുടെ ഇടം എങ്ങനെ നിലനിർത്താൻ പോകുന്നുവെന്നത് നിങ്ങൾ നിശ്ചയിക്കും ഒടുവിൽ നിങ്ങൾ എങ്ങനെ ശ്രദ്ധാപൂർവ്വം ആസൂത്രണം ചെയ്തുവെന്നും സ്ഥലവും സമയവും ആശയവിനിമയം നടത്തുന്നതിനാൽ നിങ്ങൾ സ്ഥലവും സമയവും എങ്ങനെ അവസാനിപ്പിക്കുമെന്നതും നിങ്ങൾ നിശ്ചയിക്കും അതിനാൽ സ്ഥലവും സമയവും അനൌപചാരിക ആശയവിനിമയസൂചകങ്ങളാണ് അവ വളരെ പ്രധാനമാണ് ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ ഈ രണ്ട് അനൌപചാരിക ആശയവിനിമയങ്ങൾക്കും നിങ്ങൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അത് നിങ്ങളെ ഒരു മികച്ച പ്ലാനർ മികച്ച മാനേജർ വരും ദിവസങ്ങളിൽ ഒരു മികച്ച പ്രൊഫഷണലാക്കി മാറ്റാൻ കഴിയും നിങ്ങൾ സംസ്കാരങ്ങളിലുടനീളം ആശയവിനിമയം നടത്തുമ്പോൾ സ്ഥലത്തെയും സമയത്തെയും കുറിച്ചുള്ള അവരുടെ പരിഗണനയെക്കുറിച്ച് നിങ്ങൾക്കറിയാത്തതിനാൽ അതിനെ കുറച്ച് അറിവ് നേടുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ് കൂടാതെ സ്ഥലത്തിനും സമയത്തിനുമായുള്ള അവരുടെ പരിഗണനയെക്കുറിച്ചുള്ള വസ്തുതാപരമായ വിവരങ്ങൾ ശേഖരിക്കുന്നതും അതിനാൽ നിങ്ങൾ അറിയാതെ ഉണ്ടാകുന്ന തെറ്റായ ആശയവിനിമയം തെറ്റായ ധാരണയിലേക്ക് നയിച്ചേക്കാം ഒടുവിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആകാം നിങ്ങളുടെ ബിസിനസ്സ് ഇടപാട് നടത്തുന്നതിലും നിങ്ങളുടെ ബന്ധം നിലനിർത്തുന്നതിലും സ്ഥലത്തെയും സമയത്തെയും കുറിച്ചുള്ള ഒരു പ്രഭാഷണം നിങ്ങളെ വളരെയധികം സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മളുടെ ശ്രോതാക്കളുമായോ പ്രേക്ഷകരുമായോ ഉള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കി എല്ലാത്തരം ബന്ധങ്ങളും വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നു വളരെ നന്ദി